പോളിനോമിയൽ റിംഗുകളെക്കുറിച്ചുള്ള പഠനം തുടരാം അവസാന വീഡിയോയിൽ ഞാൻ ഒരു റിങ് R ന് മുകളിലുള്ള പോളിനോമിയലുകൾ എന്താണെന്ന് സംസാരിച്ചു അതിനാൽ അത് പെട്ടെന്ന് ഓർമിക്കാം ഇന്ന് നമ്മൾ ഒരു പോളിനോമിയൽ റിംഗ് ചർച്ച ചെയ്യും R എന്നത് ഏതെങ്കിലും റിംഗാണ് നമ്മൾ നൊട്ടേഷൻ Rx ഉപയോഗിച്ചു ഇവിടെ x ഒരു വേരിയബിൾ വേരിയബിൾ എന്നാൽ ഇത് അർത്ഥമില്ലാത്ത ഒരു ചിഹ്നമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുക അതിനാൽ ഇത് ഒരു ചിഹ്നം മാത്രമാണ് അതിനാൽ R ന് മുകളിലുള്ള എല്ലാ പോളിനോമിയലുകളുടെയും സെറ്റാണിത് ഇവ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിനാൽ ഇത് ഇതുപോലെയാണ് anxn a1x a0 ഇവിടെ n ഒരു നാച്ചുറൽ സംഖ്യയും ai ഉം എല്ലാം റിങ്ങിന്റെ എലെമെന്റുകളാണ് നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് ഓർമ്മിക്കുക നമുക്ക് എല്ലാ പോളിനോമിയലുകളും എടുക്കണം അതിനർത്ഥം ഓരോ നാച്ചുറൽ സംഖ്യയ്ക്കും നമ്മൾ ചെറിയ n എടുക്കുകയും എല്ലാ പോളിനോമിയലുകളും എല്ലാ കോയിഫിഷ്യന്റുകളോടും കൂടി R റിങ്ങിന്റെ ഏതെങ്കിലും എലെമെന്റുകളായി കണക്കാക്കുകയും വേണം അടുത്ത കാര്യം Rx ന് ഒരു റിംഗ് ഘടന നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം റിംഗ് ഘടന എന്താണ് കുറച്ച് മുമ്പ് നമ്മൾ നൽകിയ ഒരു റിങ്ങിന്റെ നിർവചനത്തിൽ നിന്ന് ഓർക്കുക ഒരു സെറ്റിന് രണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു റിങ് എന്ന് വിളിക്കുന്നു നമ്മൾ സാധാരണയായി അവയെ അഡിഷൻ ഗുണനം എന്ന് വിളിക്കുന്നു ഇതിനുപുറമെ ഇതിന് ഒരു അബെലിയൻ ഗ്രൂപ്പുണ്ട് ഗുണനത്തിന് ചില ഗുണങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ ഇതിന് വിപരീതങ്ങൾ ആവശ്യമില്ല കൂടാതെ അഡിഷനും ഗുണനവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് പോളിനോമിയലുകൾ ആഡ് ചെയ്യുന്നതിനും ഗുണിക്കുന്നതിനും ഒരു നാച്ചുറൽ മാർഗമുണ്ട് അത് എന്താണെന്ന് നമുക്ക് ഓർമ്മിക്കാം പോളിനോമിയലുകൾ ചേർക്കുന്നതിന് Rx റിംഗ് നിർമ്മിക്കുന്നതിന് നമ്മൾ Rx ന് അഡിഷൻ നിർവ്വചിക്കേണ്ടതുണ്ട് Rx ലെ അഡിഷൻ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒന്നാണ് അതിനാൽ രണ്ട് പോളിനോമിയലുകൾ എടുക്കുക അതിനാൽ അടിസ്ഥാനപരമായി ആഡ് ചെയ്യുന്നതിന് ഞാൻ ആദ്യം ഇത് പോലെ എഴുതാം നമ്മൾ ലളിതമായി ആഡ് ചെയ്യുന്ന രണ്ട് പോളിനോമിയലുകൾ ആഡ് ചെയ്യാൻ f g എന്നിവ പോളിനോമിയൽ റിങ്ങിന്റെ എലെമെന്റുകളാണെന്ന് നമുക്ക് പറയാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവ പോളിനോമിയലുകളാണ് f g എന്നിവ ആഡ് ചെയ്യാൻ നമ്മൾ പദങ്ങൾ പോലെ ചേർക്കുന്നു ഇത് എന്താണ് അർത്ഥമാക്കുന്നത് പദങ്ങൾ പോലെ ഞാൻ പറയുമ്പോൾ നമ്മൾ മോണോമിയലുകൾ ഒരേ ഡിഗ്രിയിലെ മോണോമിയലുകളുടെ കോയിഫിഷ്യന്റുകൾ എന്നിവ ചേർക്കുന്നു ഞാൻ ഇത് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് anxn an 1xn 1 പോലുള്ള ഒരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരൊറ്റ പദത്തെ മോണോമിയൽ എന്ന് വിളിക്കുന്നു ഇത് ഒരു മോണോമിയലാണ് ഇതൊരു മോണോമിയലാണ് ഇതൊരു മോണോമിയലാണ് ഇവയെല്ലാം മോണോമിയലുകളാണ് ഒരു മോണോമിയലിന്റെ ഡിഗ്രി എന്താണ് ഒരു മോണോമിയലിന്റെ ഡിഗ്രി ഈ ഡിഗ്രി n ആണ് ഈ ഡിഗ്രി n 1 ആണ് ഈ ഡിഗ്രി 1 ആണ് ഈ ഡിഗ്രി 0 ഓർമ്മിക്കുക ഡിഗ്രി എന്നത് x ന്റെ എക്സ്പോണന്റിനെ സൂചിപ്പിക്കുന്നു ഓരോ മോണോമിയലിനും ഒരു ഡിഗ്രി ഉണ്ട് നമ്മൾ ഒരേ ഡിഗ്രിയിലെ മോണോമിയലുകളുടെ കോയിഫിഷ്യൻറ് ചേർക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമാണ് ഇത് വിവരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം f എന്നത് 10x5 5x2 2x 8 എന്ന് പറയാം നിങ്ങൾക്ക് ഇത് ഇന്റിജെർ കോയിഫിഷ്യൻറ് ഉള്ള ഒരു പോളിനോമിയലായി കണക്കാക്കാം കൂടാതെ g എന്നത് 7x6 8x5 5x2 8 ആണെന്ന് പറയട്ടെ അപ്പോൾ f g എന്തായിരിക്കും f g എങ്ങനെയായിരിക്കും നിങ്ങൾ x ൽ ഉള്ള ഏറ്റവും വലിയ ഡിഗ്രി പദങ്ങളെ താരതമ്യം ചെയ്യുന്നു f ൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡിഗ്രി 5 ആണ് g ലെ 5 ഏറ്റവും വലിയ ഡിഗ്രി 6 ആണ് ഓർഡർ ഡിഗ്രി 6 മോണോമിയലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1 മാത്രമേയുള്ളൂ അതിനാൽ അത് 7x6 ആണ് ഇപ്പോൾ അടുത്ത മോണോമിയൽ x5 ആഡ് ചെയ്യുന്നത് രണ്ടിനും സാധാരണമാണ് അതിനാൽ ഇത് 10x5 8x5 ആയിരിക്കും അതിനാൽ ഇത് 2x5 ഇതാണ് നമ്മൾ കോയിഫിഷ്യന്റുകൾ ആഡ് ചെയ്യുന്നത് സമാന പദങ്ങളുടെ കോയിഫിഷ്യന്റുകൾ നമ്മൾ ചേർക്കുന്നു 10 8 2 ആണ് അതിനാൽ അത് 2x5 ആണ് x2 വരെ മറ്റ് ടേമുകൾ ഇല്ല x3 x4 ഇല്ല എന്നാൽ x2 രണ്ടിലും നിലവിലുണ്ട് കൂടാതെ കോയിഫിഷ്യന്റുകൾ 5 ഉം 5 ഉം ആണ് അതിനാൽ ഇത് 0x2 ഞാനിത് ഇപ്പോൾ എഴുതുകയാണ് പക്ഷേ നമുക്ക് ഇത് പൊതുവായി എഴുതേണ്ട ആവശ്യമില്ല അടുത്തതായി നമ്മൾ x പദങ്ങൾ താരതമ്യം ചെയ്യണം g ൽ x ഇല്ല f ൽ x ഉണ്ട് അതിനാൽ അത് 2x ഉം നമുക്ക് 0x ഉം ഉണ്ട് fg യഥാർത്ഥത്തിൽ 7x6 2x5 2x മാത്രമാണ് രണ്ട് പോളിനോമിയലുകൾ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നിങ്ങൾ മനസിലാക്കുന്നു അതിനാൽ നിങ്ങൾ പദങ്ങൾ പോലെ ആഡ് ചെയ്യുക നമുക്ക് നിർവചനം എഴുതാം നമുക്ക് f anxn an 1xn 1a1x a0 g bmxn bn 1xn 1 b1x b0 എന്ന് പറയാം അതേ n ഇവിടെ എഴുതുക അല്ലെങ്കിൽ bn 0 ആകാൻ അനുവദിക്കുന്നു തീർച്ചയായും ഞാൻ ഇതുപോലെ എഴുതിയാൽ f 0x6 ആദ്യ ടേം ആയിരിക്കും അതിനാൽ an bn എന്നിവ 0 ആകാം f g അവ രണ്ടും 0 ആയിരിക്കില്ല ഇത് an bnxn an 1 bn 1xn 1 a1b1x a0b0 പോളിനോമിയലുകൾ ആഡ് ചെയ്യുന്നതിനുള്ള വളരെ നാച്ചുറൽ മാർഗമാണിത് ഇതാണ് അഡിഷൻ കൂടാതെ അഡിഷന് കീഴിൽ Rx എന്നത് അഡിഷന് കീഴിലുള്ള ഒരു അബെലിയൻ ഗ്രൂപ്പാണെന്ന് ഞാൻ ഇവിടെ ഉറപ്പിച്ചുപറയുന്നു കോയിഫിഷ്യന്റുകൾ ഒരു റിങ്ങിനുള്ളിൽ ഉണ്ടെന്ന് പരിശോധിക്കാൻ ഇത് വളരെ എളുപ്പമാണ് കോയിഫിഷ്യന്റുകൾ ഒരു റിങ്ങിലാണ് അത് ഒരു അബിലിയൻ ഗ്രൂപ്പാണ് കോയിഫിഷ്യന്റുകൾ ഗ്രൂപ്പ് സവിശേഷതകളെ തൃപ്തിപ്പെടുത്തുന്നു കൂടാതെ ഇവിടെ x നെക്കുറിച്ച് നിങ്ങൾ ശരിക്കും വിഷമിക്കാത്ത രണ്ട് പോളിനോമിയലുകൾ ആഡ് ചെയ്യുന്നു x എന്നത് ഒരു പ്ലേസ് ഹോൾഡർ പോലെയാണ് എന്താണ് ഡിഗ്രി എന്ന് x നമ്മോട് പറയുന്നു അടിസ്ഥാനപരമായി നമ്മൾ R ന്റെ എലെമെന്റുകൾ ആഡ് ചെയ്യുന്നു R ന്റെ എലെമെന്റുകൾ നമ്മൾ വിവിധ ഡിഗ്രികളിൽ ആഡ് ചെയ്യുന്നു കാരണം R ന്റെ കൂട്ടിച്ചേർക്കൽ R ലെ ഗ്രൂപ്പ് പ്രപഞ്ചങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു x ഗ്രൂപ്പ് പ്രപഞ്ചങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു പൂജ്യം എലമെന്റ് എന്താണ് പൂജ്യം പോളിനോമിയൽ ശരിയാണോ പൂജ്യം പോളിനോമിയലിന് എല്ലാ കോയിഫിഷ്യന്റുകളും 0 ഉണ്ട് അത് ഒരു പൂജ്യം മൂലകമാണ് f ന്റെ എന്താണ് f ഇതുപോലെയാണെങ്കിൽ f anxn an 1xn 1a1x a0 അസോസിയേറ്റിവിറ്റി തീർച്ചയായും നിലനിർത്തുന്നു നിങ്ങൾക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പുണ്ട് R x ന് ഒരു റിംഗ് ഘടന നൽകാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മൾ ഒരു അഡിഷൻ നിർവചിച്ചു അതിനടിയിൽ ഇത് ഒരു അബെലിയൻ ഗ്രൂപ്പാണെന്ന് നമ്മൾ കാണുന്നു ഇത് ഒരു അബെലിയൻ ഗ്രൂപ്പാണ് കാരണം fg gf ആണ് കാരണം Rx ന്റെ എലെമെന്റുകൾ ആഡ് ചെയ്യുന്നതു R ലെ എലെമെന്റുകൾ ആഡ് ചെയ്യുന്നതു പോലെ ആണ് അതായത് പോളിനോമിയലുകൾ ആഡ് ചെയ്യുന്നത് R ന്റെ എലെമെന്റുകൾ ആഡ് ചെയ്യുന്നതുപോലുള്ള എലെമെന്റുകൾ ആഡ് ചെയ്യുന്നു ഇത് ശരിയാണ് അതിനാൽ അബെലിയൻ ഗ്രൂപ്പ് ആണ് അടുത്തതായി എന്താണ് ഗുണനം അടുത്തതായി Rx ലെ ഗുണനം എന്താണെന്ന് മനസിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതും വളരെ സാമ്യമുള്ളതാണ് കുറച്ചുകൂടി സാങ്കേതികമാണ് പക്ഷേ നിങ്ങൾ ഇത് ഉപയോഗിക്കണം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല രണ്ട് മോണോമിയലുകൾ എങ്ങനെ ഗുണിക്കാമെന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നു അതിനാൽ അത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് xi xj എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങൾ അവയെ എങ്ങനെ ഗുണിക്കും നിങ്ങൾക്ക് axi bxj എന്നിവ ഉണ്ടെങ്കിൽ a b എന്നിവ റിങ്ങിന്റെ എലെമെന്റുകളാണെന്ന് ഓർമ്മിക്കുക axibxj ഞാൻ അതിനെ abxij എന്ന് നിർവചിക്കും ab യഥാർത്ഥത്തിൽ റിങ്ങിലെ ഗുണനമാണെന്ന് ഓർക്കുക ഇത് R ലെ ഗുണനമാണ് കാരണം a ഉം b ഉം R ൽ ഉള്ളതിനാൽ എനിക്ക് അവയെ ഗുണിക്കാം കാരണം R ഗുണനമുള്ള റിങ് ആണ് ഇത് R ലെ ഗുണനമാണ് xi xj എന്നീ പദങ്ങളുടെ ഗുണനമാണ് xij ഇപ്പോൾ മോണോമിയലുകളെ എങ്ങനെ ഗുണിക്കാമെന്ന് നമുക്കറിയാം ഏത് പോളിനോമിയലുകളുടെയും ഗുണനം നിർവചിക്കുന്നതിന് ഇത് സാമാന്യവൽക്കരിക്കാനാകും ഞാൻ ആദ്യം ഒരു ഉദാഹരണം എഴുതാം അത് എങ്ങനെ ഗുണിക്കാമെന്ന് നിങ്ങളോട് പറയും തുടർന്ന് ഗുണനത്തിനുള്ള എക്സ്പ്രഷൻ ഞാൻ എഴുതുന്നു അതിനാൽ വീണ്ടും വളരെ ലളിതമായ ഒരു ഉദാഹരണം നിങ്ങൾക്ക് f 2x2 3 x 5 ആണെന്ന് പറയട്ടെ ഞാൻ അനിയന്ത്രിതമായ പോളിനോമിയലുകൾ എടുക്കുന്നു നിങ്ങൾക്ക് 3x3 3 ഉണ്ട് രണ്ട് സംഖ്യകൾ ചേർത്ത് മറ്റൊരു സംഖ്യ ഉപയോഗിച്ച് ഗുണിക്കുമ്പോൾ നിങ്ങൾ നമ്പറുകൾ ആഡ് ചെയ്യുന്ന രീതി ആഡ് ചെയ്യുന്നതിന് തുല്യമാണിത് നിങ്ങൾ എങ്ങനെയാണ് f g എന്നിവ ഗുണിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് 2x3 3 x 5 തവണ 3x3 3 ആണ് നമ്മൾ എങ്ങനെ ഗുണിക്കും ഞാൻ ആദ്യം ഈ 2x3 നെക്കുറിച്ച് ചിന്തിക്കുകയും ഈ പോളിനോമിയലിനെ ഗുണിക്കുകയും ചെയ്യും ഈ പോളിനോമിയൽ 2x3 തവണ എത്രയാണ് ഞാൻ ഒരു സമയം ഒരു മോണോമിയലിനെ ഗുണിക്കും 2x3 തവണ 2x ഇത് 2x2 2x2 തവണ 3x3 ഞാൻ ഇവിടെ എഴുതിയ നിയമം അനുസരിച്ചു 6x5 ആണ് അടുത്തതായി ഞാൻ ഇത് 3 കൊണ്ട് ഗുണിക്കും അതിനാൽ എനിക്ക് 6x2 ലഭിക്കും 2x2 കഴിഞ്ഞാൽ അടുത്തതായി ഞാൻ 3x നോക്കും 3x തവണ 3x3 അങ്ങനെ അത് എനിക്ക് 9x4 നൽകും 3x തവണ - 3 അത് എനിക്ക് 9x നൽകും ഒടുവിൽ എനിക്ക് 5 തവണ 3x3 ഉണ്ട് അത് 15x3 ഉം 5 തവണ - 3 15 ഉം ആണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പദങ്ങൾ പോലെ സംയോജിപ്പിക്കുക മാത്രമാണ് ഉദാഹരണത്തിന് സമാനമായ ഏതെങ്കിലും പദങ്ങൾ ഇവിടെയുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സമാനമായ പദങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഡിഗ്രി കുറയുന്ന ക്രമത്തിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് 6x5 9x4 ലഭിക്കും എന്നാൽ പൊതുവേ നിങ്ങൾക്ക് x2 ഉണ്ടെങ്കിൽ രണ്ടുതവണ പ്രത്യക്ഷപ്പെടാം ഈ സാഹചര്യത്തിൽ നിങ്ങൾ x2 ന്റെ കോയിഫിഷ്യന്റുകൾ ചേർക്കാം ഈ സാഹചര്യത്തിൽ നമുക്കുള്ളത് 9x415x3 - 6x2 9x 15 ആണ് പോളിനോമിയലുകളെ എങ്ങനെ ഗുണിക്കാം എന്നതിനെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് ചില ആശയങ്ങൾ നൽകി നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ മോണോമിയലുകളുടെ ഈ ഗുണനം ആവർത്തിച്ച് ചെയ്യുക ആദ്യത്തെ പോളിനോമിയലിൽ നിങ്ങൾക്ക് നിരവധി മോണോമിയലുകൾ ഉണ്ട് രണ്ടാമത്തെ പോളിനോമിയലിൽ നിങ്ങൾക്ക് നിരവധി മോണോമിയലുകൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു സമയം ഒരു മോണോമിയൽ ഗുണിക്കാം ഗുണനത്തിനുള്ള പൊതു ഫോർമുല എന്തായിരിക്കും പൊതു ഫോർമുല അതിനാൽ നമുക്ക് f anxn an 1xn - 1a1x a0 gbmxm bm 1xm 1b1xb0 എന്ന് എഴുതാം നമുക്ക് f തവണ g എന്ന് പറയാം ഞാൻ f തവണ g വിവരിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് എന്താണ് f തവണ g ഞാൻ ആദ്യം ജനറൽ എഴുതുന്നു അതിനാൽ ഏറ്റവും വലിയ ഡിഗ്രി പദം mn ആയിരിക്കും ശരി P mn x ക്ഷമിക്കണം ഇത് m n ആണ് കാരണം xn തവണ xm xmn Pmn 1 xmn 1 P2x2 P1x P0 വരെ ഞാൻ P ഉപയോഗിക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് f g ന്റെ കോയിഫിഷ്യൻറ് ആണ് ഇപ്പോൾ Pi എന്ന കോയിഫിഷ്യന്റുകളെ എങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ട് കാരണം f g എന്താണെന്നും അത് എന്താണ് കോയിഫിഷ്യന്റുകൾ എന്ന് ലളിതമായി പറയാനും ഈ കോയിഫിഷ്യന്റുകൾ f g എന്നിവയുടെ കോയിഫിഷ്യന്റുകളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കപ്പെടും എന്താണ് Pk ഏത് k യ്ക്കും 1 അല്ലെങ്കിൽ 0 നും m n നും ഇടയിലുള്ള k എന്നതിന് ഇത് പോലെ എഴുതാം Pk ഞാൻ ആണെങ്കിൽ മോണോമിയലുകളുടെ ഉദാഹരണവും ഗുണിതത്തിന്റെ നിർവചനവും ഉപയോഗിച്ച് നിങ്ങൾക്ക് വേഗത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന സൂത്രവാക്യം ഇത് ശരിയാണെന്നും ഇത് തികച്ചും നേരെയാണെന്നും ഞാൻ എഴുതുന്നു പ്രൊഡക്ടിൽ xk പദം ലഭിക്കുന്നതിന് നമുക്ക് നിരവധി ഉണ്ട് പ്രൊഡക്ടിൽ xk പദം എങ്ങനെ നേടാം രണ്ട് മോണോമിയലുകൾ ഗുണിക്കാം f ഇൽ നിന്നും g ഇൽ നിന്നും ഡിഗ്രി k വരെ ചേർത്താൽ അത്തരം നിരവധി ചോയ്സുകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് x5 ലഭിക്കാൻ നിങ്ങൾക്ക് x പദം f ഇൽ നിന്നും x4 ടേമിൽ g x2 ടേം f x3 ടേം g x3 ടേം f x2 ടേം g എന്നിങ്ങനെ ഗുണിക്കാം നമുക്ക് ai തവണ bj ചേർക്കേണ്ടതുണ്ട് k വലതുവശത്ത് k വരെ ആഡ് ചെയ്യുന്ന ഓരോ i j നും അനുബന്ധ പദങ്ങളുടെ കോയിഫിഷ്യന്റുകളെ ഗുണിക്കണം f g ന്റെ ഗുണകത്തിനുള്ള പദപ്രയോഗമാണിത് പ്രത്യേകിച്ചും P0 എന്നത് a0 b0 ആയിരിക്കുമെന്ന് നമുക്കറിയാം ഇത് അതിശയിക്കാനില്ല കാരണം f g ന്റെ കോൺസ്റ്റന്റ് ലഭിക്കാൻ f g എന്നിവ കണക്കിലെടുത്ത് കോൺസ്റ്റന്റ് ഗുണിക്കാൻ നിങ്ങൾക്ക് ഒരു സാധ്യത മാത്രമേയുള്ളൂ അതുപോലെ P1 എന്താണ് ലീനിയർ ടേം ലഭിക്കാൻ ഡിഗ്രി 1 ടേം f g നിങ്ങൾക്ക് f ലെ ലീനിയർ ടേമിനെ g ലെ കോൺസ്റ്റന്റ്മായി ഗുണിക്കാം അത് എനിക്ക് a1b0 നൽകും അതുപോലെ g ലെ ലീനിയർ ടേമിനെ f ലെ കോൺസ്റ്റന്റ്മായി ഗുണിക്കാം ഇത്യാദി ഒടുവിൽ എന്താണ് Pmn ഇത് കേവലം anbm ആണ് പ്രൊഡക്ടിന്റെ എല്ലാ കോയിഫിഷ്യന്റുകളും എങ്ങനെ നേടാമെന്ന് ഇത് എന്നോട് പറയുന്നു തെളിവ് ഇല്ലാതെ ഇവ എളുപ്പത്തിൽ പരിശോധിക്കാം അവ എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും മാത്രമല്ല ഇവ ബുദ്ധിമുട്ടുള്ളവയല്ല ഒരു ഗുണിത ഐഡന്റിറ്റി ഉണ്ടെന്ന് ഞാൻ ലളിതമായി എഴുതുന്നു ലളിതമായി 1 ഏത് റിങ്ങിലും 1 കൊണ്ട് ഗുണിത ഐഡന്റിറ്റിയെ നമ്മൾ സൂചിപ്പിക്കുന്നു 1 ഇവിടെ ഗുണിത ഐഡന്റിറ്റിയായി തുടരും കാരണം കോൺസ്റ്റന്റ് പോളിനോമിയൽ 1 കൊണ്ട് ഏതെങ്കിലും പോളിനോമിയലിനെ ഗുണിച്ചാൽ നിങ്ങൾക്ക് അതേ പോളിനോമിയൽ ലഭിക്കും ഗുണനം കമ്മ്യൂട്ടേറ്റീവ് ആണ് കാരണം ഇതിന് അൽപ്പം ചിന്തിക്കേണ്ടതുണ്ട് പക്ഷേ ആത്യന്തികമായി അടിസ്ഥാന റിങ്ങിലെ R ന്റെ ഗുണനം കമ്മ്യൂട്ടേറ്റീവ് ആയതിനാൽ പോളിനോമിയലുകൾക്കുള്ള പോളിനോമിയലിലെ ഗുണനവും കമ്മ്യൂട്ടേറ്റീവ് ആണ് അത് തീർച്ചയായും അസ്സോസിയേറ്റീവ് ആണ് ഗുണനം അസ്സോസിയേറ്റീവ് ആണ് ഒടുവിൽ അഡിഷനും ഗുണനവും ഡിസ്ട്രിബ്യുട്ടീവ് ആണ് ഇത് വീണ്ടും ആത്യന്തികമായി കാരണം R റിംഗിൽ അഡിഷനും ഗുണനവും ഡിസ്ട്രിബ്യുട്ട് ചെയ്യുന്നതിനാൽ അവ Rx സെറ്റിലും ഡിസ്ട്രിബ്യുട്ട് ചെയ്യുന്നു ഇതിന്റെയെല്ലാം ഉപസംഹാരം ഞാൻ ഇത് ഒരു നിർദ്ദേശമായി എഴുതാം അതിനാൽ നമ്മൾക്ക് ഒരു നിർദ്ദേശമുണ്ട് മുകളിൽ നിർവചിച്ചിരിക്കുന്ന അഡിഷനും ഗുണനവും ഉള്ള Rx ഒരു റിംഗ് ആണ് ഞാൻ ഇത് തെളിയിച്ചിട്ടില്ല ഞാൻ ഇത് തെളിയിക്കില്ല ഞാൻ ഇത് മാത്രമേ എഴുതുകയുള്ളൂ വ്യക്തമായും ഇത് വളരെയധികം ഉപയോഗിക്കുക ഇത് നമ്മൾക്ക് ഒരു റിങ്ങിന്റെ പ്രധാന ഉദാഹരണമാണ് മുകളിൽ നിർവചിച്ചിരിക്കുന്ന അഡിഷനും ഗുണനവുമുള്ള ഒരു റിങ്ങാണ് നമുക്ക് പോളിനോമിയലുകൾ ചേർക്കാനും ഗുണിക്കാനും കഴിയും അതിനാൽ അത് ആവശ്യമായ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു റിങ്ങായി മാറുന്നു സ്ഥിരമായ പോളിനോമിയലുകൾ അടങ്ങിയ Rx ന്റെ ഉപ വലയം ഉപയോഗിച്ച് R ൽ കൂടുതൽ തിരിച്ചറിയാൻ കഴിയും കോൺസ്റ്റന്റ് പോളിനോമിയലുകൾ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് പോളിനോമിയലുകൾ ഡിഗ്രി 0 ന്റെ പോളിനോമിയലുകളാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ ഡിഗ്രി 0 പോളിനോമിയൽ ആണ് Rx നുള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി 0 പോളിനോമിയലുകൾ ഉണ്ട് ഡിഗ്രി 0 പോളിനോമിയൽ എന്താണ് ഇത് R ൽ ഡിഗ്രി 0 ഉള്ള ഫോം മാത്രമാണ് Rx ലെ 0 ന്റെ സെറ്റ് ഉപയോഗിച്ച് R തിരിച്ചറിയാൻ കഴിയും ഇത് വളരെ വ്യക്തമായ ഒരു പ്രസ്താവനയാണ് കാരണം നിങ്ങൾക്ക് കോൺസ്റ്റന്റ് പോളിനോമിയലിന് x ഇല്ല കോൺസ്റ്റന്റ് പോളിനോമിയലിനെ വിവരിക്കാൻ ആവശ്യമായ എല്ലാ ഡാറ്റയും വെറും 0 ആണ് ഇത് Rx ന്റെ ഒരു സബ് റിങ്ങാണ് കാരണം നിങ്ങൾക്ക് എലെമെന്റുകൾ ആഡ് ചെയ്യാൻ കഴിയും ഇതൊരു സബ് റിങ്ങാണ് R ഉപയോഗിച്ച് ഇത് തിരിച്ചറിയുകയും ചെയ്യാം ഇത് നമ്മൾക്ക് പ്രധാനമാണ് നമ്മൾ ഒരു പുതിയ റിങ് R ഉപയോഗിച്ച് ആരംഭിക്കുന്നു നമ്മൾ ഒരു പുതിയ റിങ് നിർമ്മിച്ചു അതിനെ നമ്മൾ പോളിനോമിയൽ റിംഗ് എന്ന് വിളിക്കുകയും പുതിയ റിങ്ങിൽ R ഒരു ഉപ റിങ്ങായി ഉൾക്കൊള്ളുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു പ്രധാന പോയിന്റാണ് ഇപ്പോൾ ഈ പോളിനോമിയൽ റിങ്ങുകൾ കുറച്ചുകൂടി പഠിക്കാം ഒരു പ്രധാന ആശയം ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പോളിനോമിയലുകളെ വിഭജിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു Rx ൽ നമുക്ക് ചിലപ്പോൾ എഴുതാം എല്ലായ്പ്പോഴും അല്ല പോളിനോമിയലുകൾ വിഭജിക്കാം എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ ഇത് വേഗത്തിൽ ചെയ്യാൻ പോകുന്നു നടപടിക്രമം ഞാൻ എഴുതുകയില്ല ഒരു നടപടിക്രമത്തിലൂടെ ഞാൻ നടപടിക്രമം വിശദീകരിക്കും ഇതാണ് സാധാരണ സംഖ്യകളുടെ ഡിവിഷൻ ഇത് നിങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന അതേ നടപടിക്രമമാണ് പ്രസ്താവന നൽകിയിരിക്കുന്നു അതിനാൽ R ഉം f ഉം R എന്നത് അനിയന്ത്രിതമായ റിങ് Rx അതിന് മുകളിലുള്ള ഒരു പോളിനോമിയൽ റിംഗ് ആണ് Rx ൽ f g എന്നീ രണ്ട് പോളിനോമിയലുകൾ നൽകിയാൽ നമുക്ക് മോണിക് പോളിനോമിയൽ എന്ന് പറയാം ഞാൻ ഇത് നിർവചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താണ് ഒരു മോണിക് പോളിനോമിയൽ ഒരു മോണിക് പോളിനോമിയൽ എന്താണെന്ന് ഞാൻ വേഗത്തിൽ നിർവചിക്കും തുടർന്ന് ഞാൻ ഇത് തുടരും നിർവ്വചനം ഒരു പോളിനോമിയൽ അതിന്റെ മുൻനിര കോയിഫിഷ്യൻറ് 1 ആണെങ്കിൽ മോണിക് ആണ് അപ്പോൾ എന്താണ് മുൻനിര കോയിഫിഷ്യൻറ് ഏറ്റവും വലിയ ഡിഗ്രി ഉള്ള എലമെന്റ് ആണ് ഇത് ഉദാഹരണത്തിന് f 2x2 x 1 Zx നുള്ളിൽ ഇത് മോണിക് അല്ല അതിന്റെ മുൻനിര കോയിഫിഷ്യൻറ് 2 ആണ് മറുവശത്ത് g എന്നത് x5 6 x 2 മോണിക് ആണ് കൂടാതെ h ന്റെ കാര്യവും h എന്നത് 3x2 - x3 x4 2 ഉം മോണിക് ആണ് കാരണം ഞാൻ അവ ശരിയായ ക്രമത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും പ്രധാന പദം ഇതാണ് ഏറ്റവും വലിയ ഡിഗ്രി ഉള്ള പദമാണ് നിർവചനം ഇവിടെ പ്രധാന പദം x4 ഉം അതിന്റെ കോയിഫിഷ്യൻറ് 1 ഉം ആണ് ഇത് മോണിക് ആണ് ഇത് ഒരു സൈഡ് ഡെഫനിഷനാണ് ഇപ്പോൾ f g രണ്ട് പോളിനോമിയലും f ഒരു മോണിക് പോളിനോമിയലും നമുക്ക് g നെ f കൊണ്ട് ഹരിക്കാം ഒരു ഡിവിഷൻ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനർത്ഥം ഇനിപ്പറയുന്നവയാണ് q r എന്നീ യൂണിക് പോളിനോമിയലുകൾ നിലവിലുണ്ട് അതായത് നമുക്ക് g നെ q f r എന്നിങ്ങനെ എഴുതാം വ്യക്തമായും ഈ ഡിവിഷന്റെ ഓർമ്മപ്പെടുത്തലിനെ സൂചിപ്പിക്കുന്നു നമുക്ക് രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ r 0 അല്ലെങ്കിൽ r 0 ആകാം അല്ലെങ്കിൽ പോളിനോമിയൽ r ന്റെ ഡിഗ്രി നിർവചിക്കാം ഓർക്കുക പോളിനോമിയലിൽ ദൃശ്യമാകുന്ന ഏറ്റവും വലിയ ഡിഗ്രി f ന്റെ ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം ഇതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവ്വം ചിന്തിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു ഇത് ഇന്റിജേഴ്സിനായുള്ള ഡിവിഷൻ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് രണ്ട് ഇന്റിജേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നിനുപുറകെ ഒന്നായി വിഭജിക്കാം നമ്മൾക്ക് കഴിയും അതിനർത്ഥം നമ്മൾക്ക് ഇത് ഇതുപോലെ എഴുതാൻ കഴിയും റിമൈൻഡർ എല്ലായ്പ്പോഴും നെഗറ്റീവ് അല്ലാത്ത സംഖ്യയേക്കാൾ കുറവാണ് 0 അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ വിഭജിച്ചതിനേക്കാൾ ഇത് വളരെ കുറവാണ് അത്രയേയുള്ളൂ നമ്മൾക്ക് എല്ലായ്പ്പോഴും ഇത് ചെയ്യാൻ കഴിയും ഞാൻ ഉദ്ദേശിച്ചത് വിശദീകരിക്കാൻ നിങ്ങൾക്ക് ഇത് തെളിയിക്കാൻ കഴിയും ഇത് ചെയ്യുന്നത് അനാവശ്യമാണെന്ന് നിങ്ങൾ എല്ലാവർക്കും ഇത് പരിചിതമാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ ഞാൻ ഒരു ഉദാഹരണം ചെയ്യും ഇത് വേഗത്തിൽ ചെയ്യട്ടെ നമ്മൾ ചെയ്യേണ്ടത് f x2 2x 1 ഉം g 3x4 - 7x3 4x2 10x 2 ഞാൻ ഒരു ഉദാഹരണം ചെയ്യട്ടെ ഇവിടെ ഇത് ഡിവൈഡു ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് സാധാരണ യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം നമ്മൾക്ക് ഇവിടെ x2 2x 1 ഉണ്ട് 3x4 7x3 4x2 10 x 2 ഞാൻ ഇവിടെ നിബന്ധനകൾ എഴുതാൻ പോകുന്നു ആദ്യം ഞാൻ 3x4 നെ x2 കളായി വിഭജിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് എങ്ങനെ ചെയ്യും അത് കേവലം 3x2 ആണ് എനിക്ക് പ്രധാന പദം 1 ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ നിങ്ങൾ കാണുന്നു കാരണം ഇത് 1 അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള 3 നേടാൻ കഴിഞ്ഞേക്കില്ല ഞാൻ ഇത് വീണ്ടും ഉദാഹരണങ്ങളിൽ വിവരിക്കും 3x2 3x4 നിങ്ങൾക്ക് 6x3 3x2 ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ശരിയായി കുറയ്ക്കുക അതിനാൽ മറ്റൊരു വിധത്തിൽ നിങ്ങൾ അടയാളങ്ങൾ മാറ്റുന്നു നിങ്ങൾ ഇത് റദ്ദാക്കും നിങ്ങൾക്കുള്ളത് -x3 ആണ് അതെ ക്ഷമിക്കണം ഇത് യഥാർത്ഥത്തിൽ ആയി മാറുന്നു 7 6 13x3 ആണ് തുടർന്ന് നിങ്ങൾക്ക് 7x2 കൂടാതെ നിങ്ങൾക്ക് 10x കുറയ്ക്കാനും കഴിയും അടുത്തതായി നിങ്ങൾ 13x ക്യൂബ് റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെത്തന്നെ 13x ലഭിക്കും 13x അതിനാൽ 13x3 26x2 13x ഉം ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വീണ്ടും കുറയ്ക്കുക 33x2 അതിനാൽ നിങ്ങൾ 3x കുറയ്ക്കുക എന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് മുതൽ ഒരു 2 ഉണ്ട് നിങ്ങൾ 2 എഴുതുന്നു ഇപ്പോൾ നിങ്ങൾ 33x2 റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നത് 33 വെറും 33 നിങ്ങൾക്ക് 33x2 66x ലഭിക്കും 33 തവണ 2x 66 x 33 ശരി നിങ്ങൾ വീണ്ടും കുറയ്ക്കുക അതിനാൽ ഈ നിങ്ങൾക്കുള്ളത് 69x31 ഉം റദ്ദാക്കും അതിനാൽ അത്രമാത്രം ഇത് q ആയിരിക്കും ഇപ്പോൾ ഇത് r ഉം ഇത് q ഉം ആയിരിക്കും നമ്മൾ പോളിനോമിയൽ f g f തവണ എന്ന് എഴുതിയിട്ടുണ്ട് അതിനാൽ g ഞാൻ എഴുതാം g f q എന്ന് ഞാൻ എഴുതുന്നു റിമൈൻഡർ 69x31 ശരി ഇതാണ് റിമൈൻഡർ റിമൈൻഡറിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ഓർക്കുക അത് ഒന്നുകിൽ 0 ആണ് ഈ സാഹചര്യത്തിൽ അത് 0 അല്ല അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി f ഡിഗ്രിയേക്കാൾ കുറവാണ് റിമൈൻഡറിന്റെ ഡിഗ്രി എന്താണ് ഇത് 1 ആണ് ഇത് f ഡിഗ്രിയേക്കാൾ കുറവ് ആണ് ഇത് ആശ്ചര്യകരമല്ല കാരണം റിമൈൻഡർ ചെറിയ ഡിഗ്രി ആകുന്നതുവരെ നമ്മൾക്ക് എല്ലായ്പ്പോഴും ഡിവിഷൻ നടപടിക്രമം തുടരാം കാരണം അത് വലിയ ഡിഗ്രിയാണെങ്കിൽ നിങ്ങൾ വിഭജിക്കുന്നത് തുടരാം നിങ്ങൾക്ക് ചെറിയ ഡിഗ്രിയുടെ റിമൈൻഡർ അല്ലെങ്കിൽ 0 ലഭിക്കുന്നതുവരെ നിങ്ങൾ പോകും നടപടിക്രമം വളരെ ലളിതമാണെന്ന് ഇത് വ്യക്തമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് എല്ലായ്പ്പോഴും ഒരു പോളിനോമിയലിനെ മറ്റൊരു മോണിക് പോളിനോമിയൽ കൊണ്ട് ഹരിക്കാം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തും അടുത്ത വീഡിയോയിൽ ഒരു പോളിനോമിയൽ റിംഗിനുള്ളിലെ വിഭജനത്തെക്കുറിച്ച് കുറച്ചുകൂടി ചർച്ചചെയ്യും കൂടാതെ പോളിനോമിയൽ റിങ്ങിന്റെ കുറച്ച് സവിശേഷതകൾ കൂടി പഠിക്കും നന്ദി